പ്രൊഫൈൽ പ്രൊജക്ടർ എന്ന ചർച്ചയുടെ അടുത്ത അധ്യായത്തിലേക്ക് സ്വാഗതം പ്രൊഫൈൽ പ്രൊജക്ടറിനെ ഒപ്റ്റിക്കൽ പ്രൊജക്ടർ എന്നും വിളിക്കുന്നു പരിശോധനയ്ക്കായി വ്യാപകമായി ഉപയോഗിക്കുന്ന ഒരു വൈവിധ്യമാർന്ന കംമ്പറേറ്റർ ആണ് പ്രൊഫൈൽ പ്രൊജക്റ്റർ കൂടുതലും കംമ്പറേറ്റർ ആയിട്ടാണ് ഉപയോഗിക്കുന്നത് ഇവിടെ അളവുകൾ പ്രധാനമല്ല എങ്കിലും പ്രൊഫൈൽ പ്രൊജക്ടറുമായി താരതമ്യപ്പെടുത്താൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് സാധ്യമാണ് കൂടാതെ അളക്കലും സാധ്യമാണ് ഇത് വർക്ക്പീസിന്റെ 2 ഡൈമൻഷണൽ മാഗ്നിഫൈഡ് ഇമേജ് ഒരു വ്യൂവിംഗ് സ്ക്രീനിൽ പ്രൊജക്റ്റ് ചെയ്യുന്നു ഒരു പ്രൊഫൈൽ പ്രൊജക്ടറിൽ 3 പ്രധാന ഘടകങ്ങൾ ഉൾക്കൊള്ളുന്നു ഒരു പ്രകാശ സ്രോതസ്സ് അടങ്ങുന്ന പ്രൊജക്ടർ ഒരു കൂട്ടം ലെൻസുകൾ ഇവ ഒരു എൻക്ലോഷറിനുള്ളിൽ സ്ഥാപിച്ചിരിക്കുന്നു വർക്ക്പീസ് കൈവശം വയ്ക്കുന്നതിനുള്ള വർക്ക് ടേബിൾ സ്ഥാപിക്കുകയും ഭാഗങ്ങളുടെ താരതമ്യത്തിനോ അളക്കലിനോ ചാർട്ട് ഗേജ് ഉപയോഗിച്ചോ അല്ലാതെയോ സുതാര്യമായി സ്ക്രീൻ സ്ഥാപിക്കുന്നു ഇതൊരു സാധാരണ പ്രൊഫൈൽ പ്രൊജക്ടറാണ് ഇവിടെ നിങ്ങൾക്ക് കാണാം നിങ്ങൾക്ക് ഒരു പ്രകാശ സ്രോതസ്സ് ലഭിക്കും ഇതാണ് പട്ടിക ഇവിടെക്ക് വസ്തു പോകുന്നു അത് വലുതാക്കാൻ ശ്രമിക്കുന്നു ഇതാണ് സ്ക്രീൻ നിങ്ങൾക്ക് ഇത് രണ്ടിനും ഉപയോഗിക്കാം നിങ്ങൾക്ക് ഇത് അളവെടുപ്പിനും താരതമ്യത്തിനും ഉപയോഗിക്കാം കംമ്പറേറ്റർ ഒരു അളക്കൽ ഉപകരണം അല്ലെങ്കിൽ താരതമ്യപ്പെടുത്തുന്ന ഉപകരണമാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും നിങ്ങൾക്ക് ഒബ്ജക്റ്റ് ഇവിടെ സ്ഥാപിക്കാൻ കഴിയുമെങ്കിൽ അത് ഹിറ്റാകും തുടർന്ന് നിങ്ങൾക്ക് ഇവിടെ മാഗ്നിഫൈഡ് ഇമേജ് കാണാൻ കഴിയും ഇതാണ് മാഗ്നിഫൈഡ് ഇമേജ് വളരെ ശക്തമായ ഉപകരണം ആണെങ്കിൽ പോലും ഇത് ടൂൾ റൂം ആപ്ലിക്കേഷനുകളിൽ ധാരാളം ആപ്ലിക്കേഷനുകൾ കണ്ടെത്തുന്നു അടുത്തത് ഒപ്റ്റിക്കൽ സ്ക്വയർ ഇതിനെ ഒപ്റ്റിക്കൽ സ്ക്വയർ എന്ന് വിളിക്കുന്നു ഇവയെ ഒപ്റ്റിക്കൽ സ്ക്വയർ എന്ന് വിളിക്കുന്നു നമുക്ക് ഒപ്റ്റിക്കൽ സ്ക്വയർ നോക്കാം ഒരു പരന്ന കണ്ണാടിയിൽ നിന്ന് വ്യത്യസ്തമായി മൌണ്ടിംഗ് ക്രമീകരണത്തിലെ പിശക് ഒരു പെന്റാപ്രിസത്തിന്റെ കൃത്യതയെ ബാധിക്കില്ല ഒരു പിശക് ഉണ്ടെങ്കിൽ മൌണ്ടിംഗ് നിങ്ങൾ അളക്കുമ്പോഴും ലഭിക്കും ഒരു പരന്ന കണ്ണാടിയിൽ നിന്ന് വ്യത്യസ്തമായി മൌണ്ടിംഗ് ക്രമീകരണത്തിലെ പിശക് ശതമാനം പെന്റാപ്രിസത്തിന്റെ കൃത്യതയെ ബാധിക്കില്ല പതന രശ്മിയുമായി ബന്ധപ്പെട്ട് 45 ഡിഗ്രി കോണിൽ ഒരു കണ്ണാടി സൂക്ഷിച്ചിരിക്കുന്നു ഇത് പതനരശ്മിയാണെന്ന് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ഇത് പ്രതിപതനരശ്മിയാണ് ഇത് ലംമ്പമായിരിക്കും പതനരശ്മിയുമായി ബന്ധപ്പെട്ട് ഒരു കണ്ണാടി 45 ഡിഗ്രി കോണിൽ സൂക്ഷിക്കുന്നു പ്രതിപതനരശ്മി പതനരശ്മിയുമായി ബന്ധപ്പെട്ട് 90 ഡിഗ്രി കോണിലായിരിക്കും പതനരശ്മി 2 മുഖങ്ങളിൽ നിന്ന് ആന്തരികമായി പ്രതിഫലിക്കുന്നു ഇത് ഉപരിതലം 1 ഉപരിതലം 2 പതനരശ്മിയുടെ 90 ഡിഗ്രിയിൽ ചതുരത്തിൽ നിന്ന് f 1 f 2 എന്ന 2 ഉപരിതലങ്ങൾ ഉയർന്നു വരുന്നു ഇത് ശ്രദ്ധേയമായ ഒരു നേട്ടമാണ് പ്രിസത്തിന്റെ ചെറിയ വ്യതിയാനമോ തെറ്റായ ക്രമീകരണമോ ലൈറ്റ് കിരണത്തിന്റെ വലത് കോണുകളുടെ ചലനത്തെ ബാധിക്കില്ല ഇത് വളരെ പ്രധാനപ്പെട്ട ഉപകരണമാണ് ഒപ്റ്റിക്കൽ സ്ക്വയർ ഏത് വസ്തുവിന്റെയും ലംബത പരിശോധിക്കാൻ ഉപയോഗിക്കുന്നു നിങ്ങൾക്ക് ഇവിടെ ഒപ്റ്റിക്കൽ സ്ക്വയർ അടിസ്ഥാനപരമായി ഒരു പെന്റഗൺ പ്രിസം കാണാൻ കഴിയും നിങ്ങൾക്ക് ഇത് പോൾ A യുടെ ഒരു ശ്രേണിയാണെന്ന് കാണാൻ കഴിയും ഇത് പോൾ C യുടെ ശ്രേണിയാണ് ഇതാണ് പോൾ B യുടെ കാഴ്ച ശ്രേണി ഇത് ഇങ്ങനെയാണ് കാണപ്പെടുന്നത് ഇത് നിങ്ങളുടെ കണ്ണ് ഇവിടെ ഒരു പ്രിസം ഉണ്ട് ഇത് 90 ഡിഗ്രി A B C D എന്നിവയിൽ പോകുന്നു കാഴ്ചയുടെ രേഖ യഥാർത്ഥ പാതയിൽ നിന്ന് 90 ഡിഗ്രി തിരിയുന്നതിനും കാഴ്ചകളുടെ രേഖ 90 ഡിഗ്രി യഥാർത്ഥ പാതയിലേക്ക് തിരിക്കുന്നതിനും ഒപ്റ്റിക്കൽ സ്ക്വയർ ഉപയോഗിക്കുന്നു ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പാരാമീറ്ററാണ് ഇത് ഒരു അത്ഭുതകരമായ ഉപകരണമാണ് ഈ പെന്റാപ്രിസം ബോക്സിലോ ഉപകരണത്തിലോ ഉള്ള മെഷീൻ വിന്യാസങ്ങളിൽ പലതും ശ്രദ്ധിക്കുന്നു അടുത്തത് ഒപ്റ്റിക്കൽ ഫ്ലാറ്റാണ് ഇതാണ് ഒപ്റ്റിക്കൽ ഫ്ലാറ്റ് ഒപ്റ്റിക്കൽ ഫ്ലാറ്റ് എന്നതിനർത്ഥം നിങ്ങൾക്ക് ഒപ്റ്റിക്കൽ ഗ്ലാസ് ഉണ്ടെന്നാണ് ഇത് ഒരു പ്ലേറ്റായി കരുതുക മുകളിലെ ഉപരിതലവും താഴത്തെ ഉപരിതലവും പൂർണ്ണമായും പരന്നതാണ് ഇത് ഫ്രിഞ്ച് പാറ്റേണുകൾ സൃഷ്ടിക്കുന്നതിന് പ്രധാനമായും ഉപയോഗിക്കുന്നു ഒപ്റ്റിക്കൽ ഫ്ലാറ്റ് ഉയർന്ന നിലവാരമുള്ള ഗ്ലാസ് അല്ലെങ്കിൽ ക്വാർട്സ് ഡിസ്കാണ് എന്ന് നമുക്ക് നോക്കാം ഡിസ്കിന്റെ ഉപരിതലം ഉയർന്ന അളവിലുള്ള പരന്നതയിലേക്ക് ലാപ് ചെയ്യുകയും ഗ്രൈൻഡ് ചെയ്യുകയും ചെയ്തിരിക്കുന്നു ഇത് അടിസ്ഥാനപരമായി ഒബ്ജക്റ്റിലെ വളരെ ചെറിയ വ്യതിയാനങ്ങൾ അളക്കുന്നതിനാണ് ഒബ്ജക്റ്റിലെ വളരെ ചെറിയ വ്യതിയാനങ്ങൾ നിങ്ങൾക്ക് അളക്കാൻ കഴിയും നിങ്ങൾ ഇത് പ്രകാശത്തിന്റെ തരംഗദൈർഘ്യം വ്യതിയാനങ്ങൾ എന്നിവ പോലെ റിപ്പോർട്ടുചെയ്യുന്നു അല്ലെങ്കിൽ നിങ്ങൾ സാധ്യമാകുന്ന ഡിഗ്രികളുടെ അടിസ്ഥാനത്തിൽ സംസാരിക്കാൻ ശ്രമിക്കുക വളരെ ചെറിയ വ്യതിയാനങ്ങൾ അളക്കാൻ കഴിയും നിങ്ങൾക്ക് ഉയർന്ന റെസല്യൂഷൻ അളക്കുന്ന ഒരേയൊരു ഉപകരണം ഇതാണ് abc ആണെങ്കിൽ λ2 ഒരു മോണോക്രോമാറ്റിക് ലൈറ്റ് സ്രോതസിന്റെ തരംഗദൈർഘ്യമാണ് ലാംഡ എങ്കിൽ പൂർണ്ണമായ ഇടപെടലിനുള്ള വ്യവസ്ഥ തൃപ്തിപ്പെടുത്തി പാത ദൈർഘ്യത്തിലെ വ്യത്യാസം തരംഗദൈർഘ്യത്തിന്റെ പകുതിയാണ് ടോട്ടൽ ഇന്റർഫെറെൻസിന് അനുയോജ്യമായ ഒരു അവസ്ഥ കണ്ണിന് അന്ധകാരത്തിന്റെ ഒരു പ്രത്യേക പാച്ച് കാണാൻ കഴിയും അതിനെ ഫ്രിഞ്ച് എന്ന് വിളിക്കുന്നു അതിനാൽ ബ്രയിറ്റ് ഫ്രിഞ്ച് ടാർക്ക് ഫ്രിഞ്ച് ബ്രയിറ്റ് ഫ്രിഞ്ച് ടാർക്ക് ഫ്രിഞ്ച് ബ്രയിറ്റ് ഫ്രിഞ്ച് ടാർക്ക് ഫ്രിഞ്ച് ഇപ്പോൾ കണ്ണിന് അന്ധകാരത്തിന്റെ ഒരു പ്രത്യേക ഭാഗം കാണാൻ കഴിയും ഇവയെ വിന്യാസം എന്ന് വിളിക്കുന്നു അടുത്തതായി അതേ ഉറവിടത്തിൽ നിന്നുള്ള മറ്റൊരു പ്രകാശകിരണം ആദ്യത്തേതിൽ നിന്ന് ഒരു കുറച്ച് അകലെയുള്ള ഒപ്റ്റിക്കൽ ഫ്ലാറ്റിൽ പതിക്കുന്നത് പരിഗണിക്കുക ഈ കിരണം d e എന്നീ പോയിന്റുകളിൽ പ്രതിഫലിക്കുന്നു def നീളം തുല്യമാണെങ്കിൽ 3λ 2 ന് ടോട്ടൽ ഇന്റർഫെറെൻസ് വീണ്ടും സംഭവിക്കുന്നു അതേ വിന്യാസം നിരീക്ഷകനും കാണുന്നു എന്നിരുന്നാലും 2 വിന്യാസംങ്ങൾക്കിടയിലുള്ള ഒരു ഇന്റർമീഡിയറ്റ് പോയിന്റിൽ പ്രകാശത്തിന്റെ 2 പ്രതിഫലിച്ച ഭാഗം തമ്മിലുള്ള പാത്ത് വ്യത്യാസം പകുതി തരംഗദൈർഘ്യത്തിന്റെ ഇരട്ട സംഖ്യയായിരിക്കും നമ്മൾ ഇത് ഒരു ഒപ്റ്റിക്കൽ ഫ്ലാറ്റ് ആണെന്ന് പറയാൻ ശ്രമിക്കുന്നു ഇത് നിങ്ങൾ അളക്കാൻ ആഗ്രഹിക്കുന്ന ഉപരിതലത്തിന്റെ ഒരു പരന്ന പ്രതലമാണ് നമ്മൾ ഒരു ഒപ്റ്റിക്കൽ ഫ്ലാറ്റ് ഉപയോഗിക്കുന്നു രണ്ട് ഉപരിതലങ്ങളും പരന്നതാണ് ഉറവിടത്തിൽ നിന്നുള്ള പ്രകാശം അതിൽ പതിക്കുന്നു ഇത് a ൽ പ്രതിഫലിപ്പിക്കുന്നു ഇത് വർക്ക്പീസിലെത്തുന്നു പരന്ന അടിഭാഗത്ത് എത്തുന്നു ശേഷം പോകുന്നു നമ്മൾ ഇത് പറഞ്ഞാൽ aλ2 ഉം ഇത് 2 ഉം ആണെങ്കിൽ നമുക്ക് ടോട്ടൽ ഇന്റർഫെറെൻസ് നടക്കുന്നു ചെറിയ കോൺ θ ൽ സ്ഥാപിച്ചിരിക്കുന്നു ഇത് a b c എന്നിവയിൽ നിന്ന് പ്രതിഫലിക്കുന്നു അതിനാൽ λ2 d e f എന്നിവ λ ആണ് ഇതിൽ ടോട്ടൽ ഇന്റർഫെറെൻസ് സംഭവിക്കുന്നു ശരിയാണ് പ്രകാശത്തിന്റെ 2 ഘടകങ്ങൾ മുഖത്തും ഒരു പോയിന്റിൽ ലൈറ്റ് ബാൻഡ് കാണും പോയിന്റുകളിൽ നിങ്ങൾ ലൈറ്റ് ബാൻഡുകൾ കാണുന്നു സ്ലിപ്പ് ഗേജ് ബ്ലോക്കുകളുടെ ഉയരം പരിശോധിക്കുക എന്നതാണ് ഒപ്റ്റിക്കൽ ഫ്ലാറ്റിന്റെ വ്യക്തമായ ഉപയോഗം അവസാന അളവെടുപ്പിനായി നമ്മൾ സ്ലിപ്പ് ഗേജ് പഠിച്ചു നമുക്ക് സ്ലിപ്പ് ഗേജിൽ ബ്ലോക്കുകൾ നിർമ്മിക്കാം നമ്മൾ ഉയരം അളക്കുന്നതിന് ഈ ബ്ലോക്കുകൾ ഉപയോഗിച്ചു പരിശോധിക്കേണ്ട സ്ലിപ്പ് ഗേജ് ടേബിൾ ഫ്ലാറ്റിലെ റഫറൻസ് ഗേജിനൊപ്പം സൂക്ഷിക്കുന്നു നിങ്ങൾക്കത് ഇവിടെ സൂക്ഷിക്കാം ഇതൊരു സ്റ്റാൻഡേർഡാണ് ഇത് വികസിപ്പിച്ചെടുത്തത് എന്തുതന്നെ ആണെങ്കിലും നിങ്ങളുടേതാണ് നിങ്ങൾക്ക് ഒരു ഒപ്റ്റിക്കൽ ഫ്ലാറ്റ് സ്ഥാപിച്ച് പരിശോധിക്കാൻ ശ്രമിക്കാം ഈ ഒപ്റ്റിക്കൽ ഫ്ലാറ്റ് തീർച്ചയായും ഒരു കോണിലായിരിക്കും ഈ കോണിൽ ചെറിയ ആംഗിൾ θ ഉണ്ടാകും പരിശോധിക്കേണ്ട സ്ലിപ്പ് ഗേജ് ഒരു ഫ്ലാറ്റ് ടേബിളിലെ റഫറൻസ് ഗേജിനൊപ്പം സൂക്ഷിക്കുന്നു ഇപ്പോൾ റഫറൻസിന്റെ വിന്യാസം കണക്കാക്കുക ബ്ലോക്ക് 1 മില്ലിമീറ്റർ വീതിയിൽ കൂടുതലാണ് 2 സ്ലിപ്പ് ഗേജുകളുടെ തമ്മിലുള്ള ദൂരം L ആണെങ്കിൽ λ എന്നത് പ്രകാശത്തിന്റെ ഏകവർണ്ണ സ്രോതസ്സ് തരംഗദൈർഘ്യം ഇനിപ്പറയുന്ന ബന്ധത്തിലൂടെ ഉയരത്തിലെ വ്യത്യാസം വികസിപ്പിക്കാൻ കഴിയും H λLN 2l ഇത് നിങ്ങൾക്ക് ഉയരവ്യത്യാസം തരുന്ന ബന്ധം ആണ് പ്രകാശത്തിന്റെ ഏകവർണ്ണ സ്രോതസ്സ് L എന്നത് 2 സ്ലിപ്പ് ഗേജുകൾ തമ്മിലുള്ള ദൂരം N എന്നത് ഫ്രിഞ്ച് പാറ്റേണിന്റെ എണ്ണം നിങ്ങൾക്ക് ഇവിടെ ബന്ധം നേടാനാകും ഇവ 2 സ്ലിപ്പ് ഗേജുകളാണ് നിങ്ങൾക്ക് കാണാം a എന്നത് ഒരു റഫറൻസ് ആകുന്നത് ഇത് നിങ്ങൾ വികസിപ്പിച്ചതാകാം ഇവ രണ്ടും പരന്ന ഒന്നിൽ സൂക്ഷിക്കേണ്ടതുണ്ട് ഇതാണ് L എന്ന് വിളിക്കുന്ന ദൂരം ഇതാണ് ചെറിയ ഡിഗ്രി ഫ്ലാറ്റ് ഒരു ചെറിയ ഡിഗ്രി തീറ്റയിൽ സ്ഥാപിച്ചിരിക്കുന്നു തീറ്റ ഡാഷും തീറ്റയും ഒന്നാണെങ്കിൽ നിങ്ങൾ ഒരേ ഫ്രിഞ്ച് പാറ്റേണുകൾ കാണും H λLN 2l തീറ്റ ഡാഷ് θ യെക്കാൾ വലുതാകുമ്പോൾ ഈ 2 തമ്മിലുള്ള വിടവ് വ്യത്യസ്തമാണെന്ന് നിങ്ങൾ കാണുന്നു ഇത് തമ്മിലുള്ള വ്യത്യാസം കുറയുമ്പോൾ നിങ്ങൾക്ക് ഫ്രിഞ്ച് പാറ്റേൺ കാണാൻ കഴിയും കൂടാതെ പാറ്റേണുകളുടെ എണ്ണവും ലഭ്യമാണ് ഫ്രിഞ്ച് പാറ്റേണുകൾ എണ്ണുന്നതിലൂടെ നമുക്ക് ഇവ രണ്ടും തമ്മിലുള്ള ഉയര വ്യത്യാസം എന്താണെന്ന് കാണാൻ ശ്രമിക്കാം 2 സ്ലിപ്പ് ഗേജുകൾ തമ്മിലുള്ള ദൂരം L ഉം λ എന്നത് ഏകവർണ്ണ സ്രോതസ്സിന്റെ തരംഗദൈർഘ്യവുമാണെങ്കിൽ ഉയരം വ്യത്യാസം h ഇനിപ്പറയുന്ന ബന്ധത്തിൽ നൽകിയിരിക്കുന്നു h λLN 2l ഒരു ലളിതമായ ചോദ്യം പരിഹരിക്കാൻ ശ്രമിക്കാം ഒരു സ്റ്റാൻഡേർഡിനെതിരെ സ്ലിപ്പ് ഗേജിന്റെ ഉയരം പരിശോധിക്കുന്നതിന് ഒപ്റ്റിക്കൽ ഫ്ലാറ്റിന്റെ ഉപയോഗം വ്യക്തമാക്കുന്ന ഒരു ചിത്രം ഇവിടെ കാണാം ഇതാണ് വികസിതമായത് ഇത് 20 മില്ലിമീറ്റർ നിലവാരമാണ് ഇത് 20 മില്ലിമീറ്റർ നൽകിയിരിക്കുന്നുകാഡ്മിയം പ്രകാശ സ്രോതസ്സ് തരംഗദൈർഘ്യത്തിൽ λ കൊടുത്തിരിക്കുന്നു 15 മില്ലീമീറ്റർ ഗേജ് വീതിയിലുള്ള ഫ്രിഞ്ചുകളുടെ എണ്ണം 10 ആണെങ്കിൽ 2 ബ്ലോക്കുകൾക്കിടയിലുള്ള ദൂരം 30 മില്ലീമീറ്ററാണ് പരിശോധിക്കുന്ന ഗേജിന്റെ യഥാർത്ഥ ഉയരം കണക്കാക്കുക അവർ പറയുന്നത് 15 ഫ്രിഞ്ച് പാറ്റേണുകൾ നിങ്ങൾക്ക് 10 മില്ലിമീറ്ററിൽ ലഭിക്കും ശരിയാണ് നിങ്ങൾ ഇത് എങ്ങനെ പരിഹരിക്കും ഉയരം h ലെ വ്യത്യാസം സമവാക്യം നൽകുന്നു ഇത് ലാംഡ 0 509 ആണ് എന്താണ് L L 30 ആണ് L എന്നത് 2 ബ്ലോക്കുകൾക്കിടയിലുള്ള ദൂരം 30 മുതൽ n വരെയാണ് ഇത് 10 മില്ലിമീറ്ററിലാണെന്ന് പറയപ്പെടുന്നു ഉയരത്തിലെ വ്യത്യാസം h λLN2l നൽകി h 0

09 µm അത്തരം അളവുകൾക്കായി ഒപ്റ്റിക്കൽ ഫ്ലാറ്റ് സമഗ്രമായി ഉപയോഗിക്കുന്നു ഇത് 15 മില്ലിമീറ്ററാണ് നിങ്ങൾ 15 കൊണ്ട് ഗുണിക്കുന്നു ശരിയാണ് അതുകൊണ്ട് മറ്റു ഒപ്റ്റിക്കൽ അളവുകൾക്ക് ഗേജ് തമ്മിലുള്ള ദൂരം ഉണ്ട്ആദ്യ ഭാഗത്തിലെ ഒപ്റ്റിക്കൽ ഫ്ലാറ്റ് ഗേജിന്റെ നീളത്തേക്കാൾ δ1 ദൂരത്തിലും രണ്ടാമത്തെ സ്ഥാനത്ത് δ2 അകലത്തിലും വർദ്ധിച്ചു ഗേജും ഒപ്റ്റിക്കൽ ഫ്ലാറ്റും തമ്മിലുള്ള λ 2 ദൂരം അടുത്തുള്ള ഫ്രിഞ്ചസുകൾക്കിടയിൽ മാറുന്നുവെന്ന് വ്യക്തമാണ് മറ്റൊരു പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കാം ഒപ്റ്റിക്കൽ ഇന്റർഫെറോമീറ്റർ ഉപയോഗിച്ച് ഉപരിതല പ്ലേറ്റിൽ 25 മില്ലീമീറ്ററിലധികം നീളമുള്ള 2 ഒപ്റ്റിക്കൽ ഫ്ലാറ്റുകൾ പരിശോധിക്കുന്നത് കാണുക പ്രകാശ സ്രോതസ്സുകളുടെ തരംഗദൈർഘ്യം 0 5 µm ആണെങ്കിൽ ഗേജ് ഉപരിതലത്തിന്റെ ടേപ്പർ നിർണ്ണയിക്കുക ഗേജ് A ഗേജ് ഉപരിതലത്തിലെ ഫ്രിഞ്ചസുകളുടെ എണ്ണം 15 ആണ് ഉപരിതല പ്ലേറ്റിൽ 5 ഗേജ് B ഗേജ് ഉപരിതലത്തിലെ ഫ്രിഞ്ചസുകളുടെ എണ്ണം 5 ഉം ഉപരിതല പ്ലേറ്റിൽ 8 ഉം ആണ് നിങ്ങൾ എങ്ങനെ ചെയ്യും n1 15 n2 5 ഗേജ് A യ്ക്കുള്ള ടേപ്പറിന്റെ തുക 15 - 5 × λ2 2 5 µm ഗേജ് B യ്ക്കുള്ള ടേപ്പറിന്റെ തുക 8 − 5 × λ2 0 75 μm അടുത്തത് ഒപ്റ്റിക്കൽ ഇന്റർഫെറെൻസ് ആണ് വ്യത്യസ്ത തരംഗദൈർഘ്യമുള്ളതും എന്നാൽ ഒരേ ഫേയിസിലുള്ളതുമായ 2 തരംഗദൈർഘ്യങ്ങൾ എടുക്കുക എന്നതാണ് ഒപ്റ്റിക്കൽ ഇന്റർഫെറെൻസ് അവ എന്താണ് A എന്നത് 1 ആണ് B മറ്റൊന്ന് ശരി അവ വ്യത്യസ്ത വ്യാപ്തിയുള്ളവയാണ് ഇത് A ഇത് B ഫേസ് ഒന്നുതന്നെയായതിനാൽ നിങ്ങൾ എല്ലായ്പ്പോഴും ഒരു ഫലമായ R നേടാൻ ശ്രമിക്കുന്നു AB എന്നിവ ചേർത്താൽ നിങ്ങൾക്ക് R ലഭിക്കും ഇവിടെ പ്രകാശം ഫേസിലാണ് എന്ന് മനസിലാക്കുക ഒരേ വ്യാപ്തിയുടെ പ്രകാശം R ആണെങ്കിൽ നിങ്ങൾ ആദ്യ ഫേസിൽ നിന്ന് അത് രണ്ടും കുറയ്ക്കുക അപ്പോൾ ഫലം ലഭിക്കും ഇവിടെ ആംപ്ലിറ്റ്യൂഡ് B യേക്കാൾ ആംപ്ലിറ്റ്യൂഡ് A വലുതാണെന്ന് കാണാം A മൈനസ് B നിങ്ങൾക്ക് ഫലമായ R ഇത് yr ആണ് ഇത് ya ആണ് ഇത് yb ആണ് 180 ഡിഗ്രി ഫേസ് വ്യത്യാസമുള്ള വ്യത്യസ്ത ആംപ്ലിറ്റ്യൂഡുകളുടെ 2 തരംഗ ദൈർഘ്യങ്ങൾ നിങ്ങൾക്ക് കാണാം തരംഗദൈർഘ്യം തമ്മിൽ ഒരു കുറയ്ക്കൽ നടക്കുന്നത് ഇതാണ് ഇന്റർഫെറെൻസ് പാറ്റേണുകൾ സൃഷ്ടിക്കുന്നതിനുള്ള ആശയം തുല്യ തരംഗദൈർഘ്യമുള്ള അനന്തമായ തരംഗങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് പ്രകാശകിരണം രണ്ട് രശ്മികൾക്കും y a y b എന്നീ ആംപ്ലിറ്റ്യൂഡ് ഉണ്ടെന്ന് കരുതുകതത്ഫലമായുണ്ടാകുന്ന തരംഗദൈർഘ്യം അങ്ങനെ രണ്ട് രശ്മികളും ഫേസിലാണ് പരമാവധി തീവ്രത ഉണ്ടാകും എന്നിരുന്നാലും രണ്ട് കിരണങ്ങൾ ഫേസിലല്ലെങ്കിൽ d എന്ന അളവിൽ പറയുക ഫലമായുണ്ടാകുന്ന തരംഗത്തിന് ഒരു വ്യാപ്തി ഉണ്ടാകും ഇവ രണ്ടും തമ്മിലുള്ള ഫേസ് വ്യത്യാസം 180 ഡിഗ്രിയാണെങ്കിൽ ഫലമായുണ്ടാകുന്ന തരംഗത്തിന്റെ വ്യാപ്തി y a y b എന്നിവയുടെ ബീജഗണിത സംഖ്യയാണ് ya yb എന്നിവ തുല്യമാണെങ്കിൽ cos 0 ആയതിനാൽ yr പൂജ്യമായിരിക്കും എന്നതാണ് പരസ്പരബന്ധം ഇതിനർത്ഥം ഒരേ തരംഗദൈർഘ്യവും വ്യാപ്തിയും ഉള്ള 2 തരംഗങ്ങൾ തമ്മിലുള്ള സമ്പൂർണ്ണ ഇന്റർഫെറെൻസ് ഇരുട്ടിനെ ഉളവാക്കുന്നു നമ്മൾ ഫ്രിഞ്ച് പാറ്റേണുകളെക്കുറിച്ച് പറയുമ്പോൾ ഇരുണ്ട ഫ്രിഞ്ച് വൈറ്റ് ഫ്രിഞ്ച് എന്നിവ പറയുന്നു അപ്പോൾ നാം ഒരു ഇരുണ്ട തിളക്കമുള്ള ഇരുണ്ട തിളക്കമുള്ളതായി കാണുന്നു ഇവ ഇരുണ്ട ഫ്രിഞ്ച് പാറ്റേണുകളാണ് അവിടെ അവ ഫേസിന് പുറത്താണ് ഒരേ തരംഗദൈർഘ്യവും വ്യാപ്തിയും ഉള്ള രണ്ട് തരംഗദൈർഘ്യങ്ങൾ തമ്മിലുള്ള സമ്പൂർണ ഇന്റർഫെറെൻസ് ഇരുട്ടിനെ ഉളവാക്കുന്നു ഈ പ്രതിഭാസം വളരെ ചെറിയ രേഖീയ അളവുകൾ കൃത്യമായി അളക്കുന്നതിന് പ്രയോഗിക്കുന്നു കൂടാതെ അളവെടുക്കൽ വിദ്യകൾ ഇന്റർഫെറോമെട്രി എന്നറിയപ്പെടുന്നു അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണത്തെ ഇന്റർഫെറോമീറ്റർ എന്ന് വിളിക്കുന്നു ഇത് സാധാരണ ഇന്റർഫെറോമെട്രിയാണ് ഇവിടെ ഒരു ഏകീകൃത പ്രകാശ സ്രോതസ്സുണ്ട് ഇത് ഒരു ഏകവർണ്ണ പ്രകാശ സ്രോതസ്സാകാം അല്ലെങ്കിൽ അത് ലേസർ ആകാം ഏകീകൃത പ്രകാശ സ്രോതസ്സ് ഈ പ്രകാശ സ്രോതസ്സ് ഒരു ബീം സ്പ്ലിറ്ററിൽ തട്ടുന്നു അപ്പോൾ എന്താണ് സംഭവിച്ചത് ഇത് ഹാഫ് സിൽവേർഡ് മിറർ ആണ് അതിനാൽ ഇവിടെ വെളിച്ചം മുറിച്ചുമാറ്റി അത് കണ്ണാടിയിലേക്ക് സഞ്ചരിക്കാൻ ശ്രമിക്കുന്നു എന്നിട്ട് ഇവിടെ വെളിച്ചം മുറിക്കുകയാണെങ്കിൽ കോണിൽ ഒരു ചെറിയ മാറ്റമുണ്ടെന്ന് കരുതി ഒരു പകുതി ഈ ദിശയിലേക്ക് പോകുന്നു അപ്പോൾ പ്രകാശം ഇവിടെ വീണ്ടും പ്രതിഫലിക്കുന്നു അതേ രീതിയിൽ തന്നെ ബീം സ്പ്ലിറ്റർ 90 ഡിഗ്രിയിൽ സംഭവിക്കുമ്പോൾ പ്രകാശകിരണം പോയി കൃത്യമായി പരന്ന ഒരു കണ്ണാടിയിൽ തട്ടി അത് തിരികെ വരുന്നു ഈ പ്രതിഫലനം തമ്മിലുള്ള ഫേസ് വ്യത്യാസമാണ് ഒരുപക്ഷേ ഇത് A1 ഉം A2 ഉം ആകാം അതായത് ഈ രണ്ട് വ്യത്യാസങ്ങളും ഡിറ്റക്ടറിലേക്ക് തള്ളപ്പെടുന്നു ഈ ഡിറ്റക്ടറിൽ ഫ്രിഞ്ച് പാറ്റേണുകൾ കണക്കാക്കുന്നു നിങ്ങൾ ഇത് രേഖീയ സ്ഥാനചലനത്തിൽ റിപ്പോർട്ടുചെയ്യുന്നു ഇതൊരു സാധാരണ ഇന്റർഫെറോമെട്രി തത്വമാണ് ഇത് എങ്ങനെ പ്രവർത്തിക്കും വളരെ ചെറിയ രേഖീയ അളവുകൾക്കായി ഉപയോഗിക്കുന്ന ഒപ്റ്റിക്കൽ ഉപകരണങ്ങളാണ് ഇന്റർഫെറോമീറ്ററുകൾ ഇതൊരു NPL ഫ്ലാറ്റ് ഇന്റർഫെറോമീറ്ററാണ് മെർക്കുറി നീരാവി ഉണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഒരു ലേസർ സ്ഥാപിക്കാം ഒരു കണ്ടൻസർ ലെൻസ് ഉണ്ട് നിങ്ങൾക്ക് ഒരു കണ്ണാടി ഉണ്ട് അതിനുശേഷം നിങ്ങൾ ഗ്രീൻ ഫിൽട്ടർ ഇടുക തുടർന്ന് നിങ്ങൾക്ക് വെളിച്ചം കടന്നുപോകുന്ന പിൻഹോളുകൾ ഉണ്ട് തുടർന്ന് നിങ്ങൾക്ക് ഒരു ഗ്ലാസ് പ്ലേറ്റ് റിഫ്ലക്റ്റർ ഉണ്ട് നിങ്ങൾക്ക് ഇവിടെ ഒരു ഐപീസ് ഉണ്ട് ഒബ്ജക്റ്റ് ഇവിടെ കാണുന്നു അത് മുമ്പത്തെ ഡിറ്റക്ടറായിരുന്നു അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഇത് CCD ചാർജ് കപ്പിൾഡ് ഡിവൈസ് ക്യാമറ അല്ലെങ്കിൽ ഡിറ്റക്ടർ എന്നിങ്ങനെ നിർമ്മിക്കാം ലൈറ്റ് ഇവിടെ തട്ടുന്നു അപ്പോൾ നിങ്ങൾക്ക് ഒരു ഗ്രീൻ കോളിമേറ്റഡ് ലെൻസ് ഉണ്ട് ഇത് ഒപ്റ്റിക്കൽ ഫ്ലാറ്റിൽ തട്ടുന്നു ഇവിടെ ഗേജ് ഉണ്ട് ശരിയാണ് ഈ ഗേജ് ഒരു മേശപ്പുറത്ത് വിശ്രമിക്കുന്നു ഇതാണ് പരീക്ഷിക്കേണ്ട ഉപരിതലം ഇതിനെതിരായി ഒപ്റ്റിക്കൽ ഫ്ലാറ്റ് സ്ഥാപിച്ചിരിക്കുന്നു ഈ ഇന്റർഫെറോമെട്രി സാങ്കേതികത ഉപയോഗിച്ച് ഈ ഉപരിതലത്തിന്റെ പരന്നത അളക്കാൻ കഴിയും ഇതിൽ ലളിതമായ ഒപ്റ്റിക്കൽ സിസ്റ്റം അടങ്ങിയിരിക്കുന്നു അത് ഫ്രിഞ്ചസുകളുടെ മൂർച്ചയുള്ള ചിത്രം നൽകുന്നു അതുവഴി ഉപയോക്താവിന് അവ കാണുന്നതിന് സൌകര്യപ്രദമാണ് മെർക്കുറി വിളക്കിൽ നിന്നുള്ള പ്രകാശം ഘനീഭവിച്ച് ഒരു ഗ്രീൻ ഫിൽട്ടറിലൂടെ കടന്നുപോകുന്നു അതിന്റെ ഫലമായി ഗ്രീൻ ഏകവർണ്ണ പ്രകാശ സ്രോതസ്സ് ഉണ്ടാകുന്നു പ്രകാശം ഇപ്പോൾ ഒരു പിൻഹോളിലൂടെ കടന്നുപോകും ഇത് ഏകവർണ്ണ പ്രകാശ സ്രോതസ്സിന്റെ തീവ്രത പോയിന്റ് ഉറവിടം നൽകും കോളിമേറ്റഡ് ലെൻസിന്റെ ഫോക്കൽ തലം സ്ഥിതിചെയ്യുന്ന തരത്തിലാണ് പിൻഹോൾ സ്ഥാപിച്ചിരിക്കുന്നത് കോളിമേറ്റഡ് ലെൻസ് ഒരു ഒപ്റ്റിക്കൽ ഫ്ലാറ്റ് വഴി പരീക്ഷിക്കുന്നതിനായി ഗേജിന്റെ മുഖത്തേക്ക് ഒരു സമാന്തര പ്രകാശകിരണം പ്രോജക്ട് ചെയ്യുന്നു ഉപരിതലം പരന്നതാണെങ്കിൽ ഫ്രിഞ്ച് പാറ്റേണുകൾ തുടർച്ചയായി സമാനമാണെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും പരന്നതയിൽ വ്യത്യാസമുണ്ടെങ്കിൽ ഫ്രിഞ്ച് പാറ്റേണുകളിൽ ഒരു മാറ്റം ഉണ്ടെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും ഫ്ലാറ്റ്നെസ് പിശക് കാരണം തുല്യവും അസമവുമായ ഫ്രിഞ്ച് പാറ്റേണുകൾ ഉണ്ടാകുന്നു ഇതൊരു പരന്ന പ്രതലമാണ് ഇതൊരു പിശക് ഉപരിതലമാണ് ഇപ്പോൾ ആ ദൂരം എന്തായാലും നിങ്ങൾക്ക് കാണാൻ കഴിയും അതിനുശേഷം നിങ്ങൾ ദൂരം അളക്കുന്ന ഫ്രിഞ്ചുകളുടെ എണ്ണം നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയും എന്താണ് പിശക് എന്ന് നിങ്ങൾക്ക് കണ്ടെത്താൻ ശ്രമിക്കാം NPL ഫ്ലാറ്റ്നെസ് ഇന്റർഫെറോമീറ്റർ ഇതുപോലെ പ്രവർത്തിക്കുന്നു ഗേജ് അവിടെയുണ്ട് നിങ്ങൾക്ക് 2 ഉപരിതലങ്ങളുണ്ട് സമവാക്യം ഒന്നുതന്നെയാണ് ഇത് ഒരു കോണിൽ സ്ഥാപിച്ചിരിക്കുന്നു നിങ്ങൾ ആദ്യത്തെ സ്ഥാനം എടുക്കാൻ ശ്രമിക്കുന്നു എന്നിട്ട് നിങ്ങൾ ഗേജിന് ചുറ്റും തിരിഞ്ഞ് പട്ടിക തിരിക്കുക തുടർന്ന് ഗേജ് B A സ്ഥാപിക്കുക ഒപ്റ്റിക്കൽ ഫ്ലാറ്റ് ഉപയോഗിച്ച് δ2 അളക്കാൻ ശ്രമിക്കുക നിങ്ങൾ രണ്ട് ഫ്രിഞ്ച് പാറ്റേണുകളും ഒരുപോലെയാണെന്ന് കാണുകയാണെങ്കിൽ ഇവ രണ്ടും പരന്ന പ്രതലങ്ങളാണ് ഗേജും ഒപ്റ്റിക്കൽ ഫ്ലാറ്റും തമ്മിലുള്ള ദൂരം ഫ്രിഞ്ചസുകൾ ക്രമീകരിച്ചു കൊണ്ട് λ2 മാറുന്നുവെന്ന് വ്യക്തമാണ് ഉപരിതലത്തിലെ പരന്ന പിശക് അളക്കാൻ ഈ ബന്ധം ഉപയോഗിക്കുന്നു